നമുക്ക് 0 മുതൽ 5 വോൾട്ട് വരെ പോകുന്ന ഈ സ്റ്റെപ് ഇൻപുട്ടിനെ Vs എന്ന് പറയാം ഇവിടെ Vs 0 മുതൽ 5 വോൾട്ട് വരെ പോകുന്നു അത് കൊണ്ട് Vc എങ്ങനെയിരിക്കും Vc 0 ആണ് അതായതു ഈ കപ്പാസിറ്ററിന്റെ പ്രാരംഭ മൂല്യം 0 ആണ് ഇനി നമുക്കു കപ്പാസിറ്റർ C1 ഇല്ലാതെ ഇത് ചെയ്തു നോക്കാം അങ്ങനെ വരുമ്പോൾ കപ്പാസിറ്റർ C യിലെ വോൾട്ടേജ് എന്താണ് സ്റ്റെപ് സിഗ്നൽ ഇൻപുട്ട് പ്രയോഗിച്ചതിനുശേഷം Vc യുടെ മൂല്യം എന്താണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അതിന് 0 വോൾട്ട് ഉണ്ട് ഇപ്പോൾ എന്റെ ചോദ്യം സ്റ്റെപ് ഇൻപുട്ട് പ്രയോഗിച്ചതിനുശേഷം Vc യുടെ മൂല്യം എന്താണ് എന്നതാണ് മുമ്പത്തെ സർക്യൂട്ടിൽ കപ്പാസിറ്റർ വോൾട്ടേജുകൾക്ക് വ്യത്യാസം വരില്ല മുമ്പ് ഞങ്ങൾ പറഞ്ഞു തുടർന്ന് അത് 0 ആണെന്നും നമ്മൾ കണ്ടു ഒന്നാമതായി ഈ കപ്പാസിറ്ററിനു കുറുകെ നമുക്ക് വോൾട്ടേജ് ഉണ്ട് നിങ്ങൾ സ്റ്റെപ്പ് ഇൻപുട്ട് പ്രയോഗിക്കുന്നതിന് മുമ്പ് Vc1 0 ഉം Vc 0 ഉം ആണ് ഈ വോൾട്ടേജ് മാറില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇതേ ന്യായവാദം ഇവിടെ ബാധകമാണെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്താണ് പരിഹാരം നിങ്ങൾ ഇവിടെ പ്രശ്നം മനസ്സിലാക്കുന്നു സ്റ്റെപ്പ് ഇൻപുട്ടിന് തൊട്ടുപിന്നാലെ Vc ക്ക് 0 ൽ തുടരാനാവില്ല അതിനാൽ അത് എന്തായിരിക്കണം നിങ്ങൾ എങ്ങനെ മൂല്യം കണ്ടെത്തും തുടക്കത്തിൽ നമുക്ക് ഈ രണ്ട് പ്ലേറ്റുകളിൽ ചിലത് 0 ആയി സങ്കല്പിക്കാം അത് കൂടാതെ R വഴി വരുന്ന ഏത് കറന്റും പരിമിതമായിരിക്കും എന്ന് മാത്രമല്ല ഇത് തൽക്ഷണം മാറ്റാൻ കഴിയില്ല അതിനാൽ തൽക്ഷണമുണ്ടാകുന്ന ഏത് മാറ്റവും ഈ പ്ലേറ്റിലെ ചാർജിൽ നിന്ന് ആ പ്ലേറ്റിലെ ചാർജിലേക്ക് മാത്രമേ വരൂ ഇൻപുട്ടിലെ ഒരു മാറ്റത്തിനു ശേഷവും Vc 0 ആണെന്ന് കരുതുന്നുവെങ്കിൽ അതിനർത്ഥം ഒരു പരിമിത കറന്റ് മാത്രമേ അതിലൂടെ കടന്നുപോകുന്നുള്ളൂ എന്നാണ് പക്ഷേ തുടക്കത്തിൽ 0 ആയിരുന്ന ഈ Vc1 യുടെ മൂല്യം 5 വോൾട്ടുകളായി മാറും അതിനർത്ഥം അവിടെ അനന്തമായ കറന്റ് ഉണ്ടായിരുന്നു അതിനാൽ ഇവ രണ്ടും സന്തുലിതമാക്കാനാവില്ല എന്നാണ് ഇവിടെ നമ്മൾ KCL സമവാക്യം പ്രയോഗിക്കുന്നതായി സങ്കല്പിച്ചാൽ നമുക്കു കാണാം റെസിസ്റ്ററിലൂടെയും ഈ കപ്പാസിറ്ററിലൂടെയും ഉള്ള കറന്റ് പരിമിതമാണ് എന്നാൽ ഈ കപ്പാസിറ്ററിലൂടെയുള്ള കറന്റ് അനന്തമാണ് അതിനാൽ തന്നെ അത് സന്തുലിതമാകില്ല അതിനാൽ ഒരേയൊരു പരിഹാരം ഈ Vc കുറച്ചു അളവിൽ മാറ്റുക എന്നതാണ് എന്നാൽ അത് Vs ന് തുല്യമാവാൻ പാടില്ല ചുരുക്കി പറഞ്ഞാൽ Vc Vc1 എന്നിവയിൽ ഒരു ക്ഷണ നേരം കൊണ്ട് ഒരു മാറ്റം സംഭവിക്കും യഥാർത്ഥത്തിൽ അവിടെ പോകുന്ന അനന്തമായ കറന്റ് ശരിക്കും ഒരു ചാർജ് പാക്കറ്റാണ് C1 ലേക്ക് പോകുന്ന അത് C യുടേതിന് തുല്യമാണ് ആ സമയത്ത് KCL തൃപ്തിപ്പെടുത്തുന്ന ഒരേയൊരു പോയിന്റ് ആണിത് ഈ dvs ബൈ dt dvsdt എന്നത് തീർച്ചയായും ഇവിടെ അനന്തമാണ് ഇതിനും അനന്തമായ മൂല്യമുണ്ടെങ്കിൽ മാത്രമേ അത് സന്തുലിതമാകൂ അതായത് Vc യുടെ മൂല്യം വ്യത്യാസപ്പെടണം ഇത് വ്യക്തമാണോ ഇത് എത്രത്തോളം വ്യത്യാസപ്പെടും C1 C എന്നിവയിലുടനീളം വോൾട്ടേജ് വ്യത്യാസപ്പെടുമെന്ന് ഞങ്ങൾ ഇതിനകം നിഗമനം ചെയ്തു അതിനർത്ഥം C1 C എന്നിവയിലൂടെയുള്ള കറന്റ് ആ ക്ഷണം അനന്തമാണ് അതിനു മുമ്പല്ല മറിച്ച് ആ തൽക്ഷണത്തിലാണ് എന്നാൽ R വഴിയുള്ള കറന്റ് പരിമിതമായിരിക്കും അതിനാൽ ഇവിടെ KCL നെ സംബന്ധിച്ചിടത്തോളം ചില പരിമിതമായ സംഭാവനകളും രണ്ട് അനന്തമായ സംഭാവനകളുമുണ്ട് അതിനാൽ നമുക്ക് റെസിസ്റ്ററിനെ പൂർണ്ണമായും അവഗണിക്കാം അടിസ്ഥാനപരമായി ഒരു സ്റ്റെപ്പ് ഇൻപുട്ടിനുള്ള ഔട്ട്പുട്ട് ലഭിക്കാൻ റെസിസ്റ്റർ നീക്കംചെയ്ത ഈ നെറ്റ്വർക്ക് എടുക്കുക ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരത്തെ പരിഹരിച്ചതാകാം തുടക്കത്തിൽ ഈ കപ്പാസിറ്ററുകളുടെ ചാർജ് 0 ആണ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുന്നതിനു തൊട്ടുപിന്നാലെ ഇത് Vc ആയി മാറും അതിനെ 0 എന്ന് സൂചിപ്പിക്കാം ഇതിന്റെ ചാർജ് C×Vc0 ഉം ഇതിലെ ചാർജ് C1×Vc 0 Vs ഉം ആയിരിക്കും ഈ പ്ലേറ്റിലെ ചാർജ് ഇവ രണ്ടും തുല്യവും വിപരീതവുമായിരിക്കണം ഈ രണ്ട് ചാർജുകളുടെ ആകെത്തുക എന്നാൽ ഞാൻ അർത്ഥമാക്കിയത് ഈ പ്ലേറ്റുകളിൽ നിന്ന് ചാർജിന് മറ്റെവിടെയും പോകാൻ കഴിയില്ല എന്നാണ് അവ എപ്പോഴും 0 ന് തുല്യമായിരിക്കണം ഈ രണ്ടു കപ്പാസിറ്ററുകളുടെയും ആകെത്തുകയെ 0 ന് തുല്യമാക്കിയാൽ നിങ്ങൾ എന്താണ് നേടുക Vc 0 എന്നാൽ Vs C1 നെ C1 C2 കൊണ്ട് ഭാഗിക്കുന്നതിനു തുല്യമായിരിക്കും അതായതു ഇൻപുട്ട് സിഗ്നൽ X കപ്പാസിറ്റിവ് ഫാക്ടർ ഇത് സ്റ്റെപ് സിഗ്നൽ ഇൻപുട്ട് കണക്കാക്കുന്നതിനു മാത്രമേ ഉപകരിക്കുകയുള്ളൂ തീർച്ചയായും R വഴിയുള്ള കറന്റ് ചിത്രം മാറ്റും ഇവിടെ C 3 നാനോഫാരഡും C1 2 നാനോഫാരഡും ആണെന്ന് നമുക്ക് പറയാം ഇവിടെ നമ്മൾ കൊടുക്കുന്ന സ്റ്റെപ്പ് സിഗ്നൽ വോൾട്ടിലേക്കു മാറിയാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതുന്നത് ഒരു സ്റ്റെഡി സ്റ്റേറ്റ് എത്തുമ്പോൾ C യിലെ അന്തിമ മൂല്യം എന്താണ് കപ്പാസിറ്ററുകളിലേക്ക് വൈദ്യുത പ്രവാഹങ്ങളൊന്നും പ്രവഹിക്കാത്തപ്പോൾ അന്തിമ മൂല്യം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത് അത് 5 വോൾട്ട് ആയിരിക്കും അപ്പോൾ കറന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് കപ്പാസിറ്ററുകൾ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും എന്നാണ് അതിനാൽ നിങ്ങൾക്ക് Vs കൾ മുഴുവനായും ഇവിടെ ലഭിക്കുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സമവാക്യത്തിൽ നിന്നാണ് എല്ലാ ഡെറിവേറ്റീവ് പദങ്ങളും ഇല്ലാതാകുകയും V c V s ന് തുല്യമാവുകയും ചെയുന്നത് ഇത് ഒരു എക്സ്പോണൻഷ്യൽ സിഗ്നൽ ആയി 5 വോൾട്ട് വരെ എത്തിച്ചേരും ഇതിന്റെ ടൈം കോൺസ്റ്റന്റ് എത്രയായിരിക്കും R ന്റെ മൂല്യം 1 കിലോ Ω ആണെങ്കിൽ 5 മൈക്രോ സെക്കൻഡ് ആയിരിക്കും ടൈം കോൺസ്റ്റന്റ് 5 നാനോഫറാഡ് X 1 കിലോ Ω അതായത് 5 മൈക്രോ സെക്കന്റ് അതിനാൽ നമ്മൾ സ്റ്റെപ് ഇൻപുട്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കപ്പാസിറ്റർ തരംഗരൂപങ്ങളിൽ ഡിസ്കണ്ടിന്യൂയിറ്റിസ് സംഭവിക്കുന്നതായി കാണാം കൂടാതെ നിങ്ങൾക്ക് ഒരു കപ്പാസിറ്ററിനു കുറുകെ അല്ലെങ്കിൽ കപ്പാസിറ്ററുകളുടെ ഒരു സീരീസ് സംയോജനത്തിൽ വോൾട്ടേജ് ഉറവിടമുണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കൂ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കപ്പാസിറ്ററുകളും വോൾട്ടേജ് സ്രോതസ്സുകളും മാത്രം അടങ്ങുന്ന ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ ജമ്പുകൾ സാധ്യമാണ് കാരണം ഒരു പരിമിത കറന്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു കപ്പാസിറ്ററിലുടനീളം വോൾട്ടേജിൽ ഒരു ജമ്പ് സൃഷ്ടിക്കാൻ കഴിയില്ല അനന്തമായ കറന്റ് ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയൂ നിങ്ങൾ ഒരു കപ്പാസിറ്റർ എടുക്കുകയും അതിലൂടെ ഒരു വോൾട്ടേജ് പ്രയോഗിക്കുകയും ചെയ്താൽ അത് അനന്തമായ കറന്റ് നെ ആകർഷിക്കും തുടർന്ന് കപ്പാസിറ്റർ വോൾട്ടേജിനു ഏത് വോൾട്ടേജ് ഉറവിടങ്ങളിലേക്കും മാറാം അതുപോലെ നിങ്ങൾക്ക് വോൾട്ടേജ് ഉറവിടത്തിന്റെയും കപ്പാസിറ്ററിന്റെയും ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ അതേ കാര്യം തന്നെ സംഭവിക്കും കപ്പാസിറ്റർ C1 ന് കുറുകെയുള്ള വോൾട്ടേജായ Vc1 ഉം നമുക്ക് വിലയിരുത്താം അതിനാൽ ഇത് 3 വോൾട്ടിലേക്ക് ഉയരും അവസാന മൂല്യം എന്താണ് 0 ഇവിടെ തരംഗരൂപത്തിന് എന്ത് സംഭവിക്കും ഇതിന് 5 മൈക്രോ സെക്കന്റുള്ള ടൈം സ്ഥിരാങ്കവും ഉണ്ടായിരിക്കും അതിനാൽ ഈ സമവാക്യം 3 വോൾട്ട് എക്സ്പോണൻഷ്യൽ t ബൈ 5 മൈക്രോ സെക്കന്റുകൾ ആണെന്ന് എനിക്ക് എഴുതാം അതേ പോലെ നീല പോയിന്റ്5 വോൾട്ട് 3 വോൾട്ട് എക്സ്പോണൻഷ്യൽ എന്നും എഴുതാം ഇത് 5 വോൾട്ട് അല്ല കാരണം ഇത് 5 വോൾട്ട് ആണെങ്കിൽ അതിനർത്ഥം ഇത് 0 ൽ നിന്ന് ആരംഭിക്കുന്നു അത് 2 വോൾട്ടിൽ നിന്ന് ആരംഭിക്കുന്നു അതിനാൽ ഇത് 5 വോൾട്ട് 3 വോൾട്ട് എക്സ്പോണൻഷ്യൽ t ബൈ 5 മൈക്രോ സെക്കന്റുകൾ ആണ്